ഈ ഭാഗത്ത് സർക്യൂട്ട് രൂപകൽപ്പനയിൽ ഉപയോഗപ്രദമാകുന്ന ഇപ്പോഴും കോൺസെപ്റ്റ് മാത്രമായി നിൽക്കുന്ന രണ്ടു അവസ്ഥകൾ നമ്മുക്ക് പരിഗണിക്കാം ഇവ ഓപ്പൺ ഷോർട്ട് സർക്യൂട്ടുകളാണ് ഇപ്പോൾ ഞാൻ ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുമ്പോൾ ഈ രണ്ട് നോഡുകൾ n1 നും n2 നും ഇടയിലുള്ള ഒരു ഷോർട്ട് സർക്യൂട്ടാണെന്ന് എനിക്ക് പറയാനുണ്ട് ഇത് പരിഗണിക്കാൻ നിരവധി മാർഗങ്ങളുണ്ട് അതിനാൽ എനിക്ക് ഇവിടെ ഒരു നോഡ് n1 ഉണ്ടെന്നും എനിക്ക് ഇവിടെ നോഡ് n2 ഉണ്ടെന്നും അവയ്ക്കിടയിൽ ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടെന്നും ഞാൻ പറയട്ടെ ഒരു ഷോർട്ട് സർക്യൂട്ട് ഇവ രണ്ടും ബന്ധിപ്പിക്കുന്ന അനുയോജ്യമായ വയർ മാത്രമാണ് എന്ന് നമുക്കറിയാം അതിനാൽ ഇത് കൈകാര്യം ചെയ്യാൻ നിരവധി മാർഗങ്ങളുണ്ട് അതിനാൽ ഒന്നാമതായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ഇത് രണ്ട് വ്യത്യസ്ത നോഡുകളായി കണക്കാക്കരുത് പക്ഷേ അവയെ ഒരൊറ്റ നോഡായി പരിഗണിക്കുക അത് എല്ലായ്പ്പോഴും സാധ്യമാണ് നമ്മൾ അവയെ രണ്ടു വ്യത്യസ്ത നോഡുകളായി പരിഗണിച്ചിട്ടില്ല ഇതുവരെ പക്ഷേ വിശകലന വേളയിൽ നമ്മൾ രണ്ട് വ്യത്യസ്ത നോഡുകൾ പരിഗണിക്കുമായിരുന്നു അവയ്ക്കിടയിൽ ഒരു ഷോർട്ട് സർക്യൂട്ടുകൾ സംഭവിക്കുന്നു ഇവയെല്ലാം സാധ്യമാണ് അതിനാൽ ഷോർട്ട് സർക്യൂട്ടിന്റെ സ്വഭാവം നമ്മൾ നോക്കും ഇത് വളരെ ചെറുതാണ് പക്ഷേ നമ്മൾ ഇപ്പോഴും അത് നോക്കി അതിനാൽ n1 നും n2 നും ഇടയിലുള്ള ഷോർട്ട് സർക്യൂട്ടുകൾ എന്താണ് അർത്ഥമാക്കുന്നത് രണ്ട് നോഡുകൾക്കിടയിൽ പൂജ്യം വോൾട്ടേജ് വ്യത്യാസങ്ങളുണ്ടെന്നാണ് ഇതിനർത്ഥം ഇപ്പോൾ ഈ രണ്ട് നോഡുകൾക്കിടയിൽ പൂജ്യം വോൾട്ടേജ് ആണ് അതിനാൽ ഞാൻ ഇതിന്റെ I V ക്യാരക്ടറിസ്റ്റിക്സ് വരച്ചാൽ വ്യക്തമായും വോൾട്ടേജ് എല്ലായ്പ്പോഴും പൂജ്യമാണ് കൂടാതെ ഏത് വൈദ്യുതധാരയും ഷോർട്ട് സർക്യൂട്ടിലൂടെ ഒഴുകും അതിനാൽ ക്യാരക്ടറിസ്റ്റിക്സ് ഇതുപോലെ കാണപ്പെടുന്നു അത്തരം ലംബ രേഖ ഉത്ഭവത്തിലൂടെ കടന്നുപോകുന്നു പൂജ്യം മൂല്യം ഉള്ള ഒരു വോൾട്ടേജ് സ്രോതസ്സായി ഇതിനെ പ്രതിനിധീകരിക്കാമെന്ന് ഇപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമാണ് ഇത് പൂജ്യം മൂല്യം ഉള്ള ഒരു റെസിസ്റ്റർ ഇനും തുല്യമാണ് അതിനാൽ R0 ആണെങ്കിൽ V IR ൽ നിന്ന് V എല്ലായ്പ്പോഴും പൂജ്യത്തിന് തുല്യമാകുമെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ ഇവയെല്ലാം ഈ രണ്ട് നോഡുകൾക്കിടയിൽ ഷോർട്ട് സർക്യൂട്ടുകൾ ഉള്ളതിന് തുല്യമായ ആശയങ്ങളാണ് അതിനാലാണ് ഞാൻ ഈ കാര്യം ആദ്യം കൊണ്ടുവന്നത് ഇപ്പോൾ സമാനമായി ഇതിനെ രണ്ട് നോഡുകൾക്കിടയിലുള്ള പൂജ്യം ഇൻഡക്റ്റൻസായി നമുക്ക് കണക്കാക്കാം കാരണം V എന്നത് LdIdt ആണെന്ന് നമുക്കറിയാം ഇതിനർത്ഥം സമയ ഡെറിവേറ്റീവിന്റെ ഏതൊരു പരിമിത മൂല്യത്തിനും വോൾട്ടേജ് ഇപ്പോഴും 0 ആയിരിക്കും എന്നാണ് ഇത് തെളിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാൽ നിങ്ങൾക്കത് സ്വയം വിശദീകരിക്കാൻ കഴിയും അത് ഒരു കപ്പാസിറ്റൻസിന് തുല്യമാണ് അത് ഇൻഫിനിറ്റി ആണ് അതിനാൽ കപ്പാസിറ്റൻസ് ഇൻഫിനിറ്റി ആണ് അപ്പോൾ കപ്പാസിറ്റൻസ് ബന്ധിപ്പിച്ചിരിക്കുന്ന രണ്ട് നോഡുകൾക്ക് നിർബന്ധിതമായും ഒരേ മൂല്യം ആയിരിക്കും രണ്ട് നോഡുകളും ഒരേ വോൾട്ടേജിലായിരിക്കും അതിനാൽ സമാനമായ ഒരു ആശയം ഒരു ഓപ്പൺ സർക്യൂട്ട് ആണ് അതിനാൽ ഓപ്പൺ സർക്യൂട്ട് ശരിക്കും അർത്ഥമാക്കുന്നത് ഈ രണ്ട് നോഡുകളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നാണ് അതായത് ഈ രണ്ട് നോഡുകൾക്കിടയിൽ കറണ്ട് പ്രവാഹം ഇല്ല മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ കറന്റ് 0 ന് തുല്യമാണ് അതിനാൽ ഇതിന്റെ അർത്ഥമെന്താണ് നിങ്ങൾക്ക് കറണ്ട് ഉറവിടവുമായി തുല്യമായി പ്രതിനിധീകരിക്കാൻ കഴിയും കാരണം കറന്റ് പൂജ്യമാണെങ്കിൽ ഞാൻ അതിന്റെ I V ക്യാരക്ടറിസ്റ്റിക്സ് വരയ്ക്കുന്നു എനിക്ക് 0 ന് തുല്യമായ ഉത്ഭവത്തിലൂടെ കടന്നുപോകുന്ന ഒരു തിരശ്ചീന രേഖ ഉണ്ടായിരിക്കും അതിനാൽ ഇത് പൂജ്യ മൂല്യമുള്ള കറണ്ട് ഉറവിടമാണ് ഇത് ഇൻഫിനിറ്റി മൂല്യമുള്ള റെസിസ്റ്റർ അല്ലെങ്കിൽ പൂജ്യം മൂല്യമുള്ള കണ്ടക്ടൻസ് എന്നിവയ്ക്ക് തുല്യമാണ് ഇത് വീണ്ടും തെളിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാൽ ഇത് പൂജ്യം മൂല്യമുള്ള കപ്പാസിറ്റൻസിന് അല്ലെങ്കിൽ ഇൻഫിനിറ്റി മൂല്യമുള്ള ഇൻഡക്റ്റൻസിന് തുല്യമാണെന്ന് നിങ്ങൾക്ക് സ്വയം എളുപ്പത്തിൽ വിശദീകരിക്കാൻ കഴിയും അങ്ങനെ ഇത് ഒരു ഓപ്പൺ സർക്യൂട്ട് ആണ് അതിനാൽ ഈ തീവ്ര മൂല്യങ്ങളുള്ള ഘടകങ്ങളായി ഒരു ഓപ്പൺ സർക്യൂട്ട് അല്ലെങ്കിൽ ഒരു ഷോർട്ട് സർക്യൂട്ടിനെക്കുറിച്ച് ചിന്തിക്കുന്നത് ചിലപ്പോൾ ഉപയോഗപ്രദമാണ്